ഒരു പ്രോട്ടോക്കോളിൽ നിന്ന് ആർ ഡി മനസിലാക്കാം ഡി പ്രോട്ടോക്കോൾ പ്രധാനമാണ് നിങ്ങൾ ഈ പ്രോട്ടോക്കോൾ നന്നായി മനസ്സിലാക്കണം ഡെമോ ചെയ്യുന്ന സമയത്ത് സ്റ്റേഷനുകളും ടാർഗെറ്റുകളും പേർസിസ്റ്റൻ്റ് സമയവും എന്താണെന്ന് കണ്ടിരുന്നു ഈ പാരാമീറ്ററുകൾ നിങ്ങൾക്ക് ട്യൂൺ ചെയ്യണമെങ്കിൽ പ്രോട്ടോക്കോളിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഒരു ക്യാപ്സൂളിൽ പ്രോട്ടോക്കോളും ആർ ഡിയിൽ നിലവിൽ നിലനിൽക്കുന്ന ഹാർഡ് പ്രശ്നങ്ങളും വേഗത്തിൽ മനസിലാക്കാം ഇതിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം ത്രൂപുട്ടുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ പ്രശ്നം ലോക്കലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് ഇവ 2 വലിയ പ്രശ്നങ്ങളാണ് RFID ഡൊമെയ്നിലെ ഈ 2 വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു നൽകാൻ ശ്രമിക്കുന്നതിനൊപ്പം ആർ ഡി പ്രോട്ടോക്കോളും മനസ്സിലാക്കാം അതിനാൽ ഈ ത്രൂപുട്ട് ഉപയോഗിച്ച് എങ്ങനെ ആരംഭിക്കാമെന്നും അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്നും നോക്കാം ഒന്നാമതായി ആർ ഡി യെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഇ പി സി ജെന 2 2 ആണ് ഇ പി സി ജെന 2 2 ക്ലാസ് 1 പ്രോട്ടോക്കോളിന് കീഴിലാണ് അടിസ്ഥാനപരമായി ഈ പ്രോട്ടോക്കോൾ ഫ്രെയിം സ്ലോട്ട് അലോഹ എന്നറിയപ്പെടുന്നു ഇതിനെ എഫ്എസ്എ എന്നും വിളിക്കുന്നു ഇതിൽ എഫ്എസ്എ ബൈനറി ട്രീ സ്പ്ലിറ്റിംഗ് അൽഗോരിതം എന്നിവ ഉൾക്കൊള്ളുന്നു മീടിയം ആക്സസ് കംട്രോൾ ലെയറിലെ കൊളിഷനുകൾ ഒഴിവാക്കാൻ ഇത് ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഒരേ ടാഗിൽ ഒന്നിലധികം ടാഗുകൾ പ്രതികരിക്കുമ്പോളാണ് ഇത് സംഭവിക്കുന്നത് 2 ടാഗുകൾ ഒരേ സമയം സ്ലോട്ടിൽ പ്രതികരിക്കുമ്പോൾ എന്തുസംഭവിക്കും ഇതാണ് റീഡറിൽ ഉണ്ടാകുന്ന ഡാറ്റ സിഗ്നലുകൾ ഇത് രണ്ടും കൂടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും ഡീകോഡ് ചെയ്യുന്നതെങ്ങനെയെന്ന് റീഡർക്ക് അറിയില്ല അതിനാൽ രണ്ട് ടാഗുകളും ഉപേക്ഷിക്കേണ്ടതുണ്ട് ഈ ടാഗിൽ നിന്നും വരുന്ന ഡാറ്റ കാരണം എല്ലാം വഷളായതിനാൽ ഇത് നിർമ്മിക്കാൻ കഴിയില്ല അടിസ്ഥാനപരമായി ഇത് ത്രൂപുട്ടിലെ നഷ്ടത്തിന് കാരണമാകുന്നു അതിനർത്ഥം നിങ്ങൾക്ക് വളരെ വലിയ ടാഗ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ചില ഡെമോ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ ടാഗുകളും റീഡ് ചെയ്യേണ്ടിവരും റീഡ് ചെയ്യുന്ന എല്ലാ ടാഗുകളും മുഴുവൻ സിസ്റ്റവും എത്രത്തോളം നന്നായി ഉൾക്കൊള്ളുന്നു എന്നതാണ് അടുത്ത ചോദ്യം ടാഗുകൾ തമ്മിൽ കൊളൈഹയ്ഡ് ചെയ്യാൻ സാധ്യത ഉള്ളതിനാലും എല്ലാ ടാഗുകൾക്കും നിശ്ചിത സമയത്തിനകം റീഡ് പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാലും സമയം ഒരു പ്രധാന ഘടകമായി കണക്കാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അത് പ്രധാനo ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോകുമ്പോൾ ടാഗുചെയ്ത ദശലക്ഷക്കണക്കിന് സാധനങ്ങൾ ഉണ്ടാകും ഞാൻ നിങ്ങൾക്ക് അര മണിക്കൂർ തരുമെന്ന് കരുതുക അവിടെ ടാഗുചെയ്തിരിക്കുന്ന എല്ലാ ഇനങ്ങളുടെയും ഒരു പട്ടിക നിങ്ങൾ ഉണ്ടാക്കണം ഏതെങ്കിലും തരത്തിലുള്ള സമയപരിധി നൽകിയിട്ടുണ്ടെന്ന് കരുതുക എല്ലാ ടാഗുകളും റീഡ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ഉറപ്പാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന പെർഫോർമെൻസ് അൽഗോരിതം ഇല്ലെങ്കിൽ ഈ സ്ലോട്ടുകളിൽ ടാഗുകൾ കൊളയ്ഡ് ചെയ്യുകയും നിങ്ങൾക്ക് ത്രൂപുട്ട് നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ പ്രോട്ടോക്കോൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും കൊളിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് മാർഗമുണ്ടെന്നും അറിഞ്ഞിരിക്കണം അതിനാൽ ത്രൂപുട്ട് മെച്ചപ്പെടുത്തണമെന്നും മനസ്സിലാക്കണം ഒരു ചിത്രത്തിലൂടെ സിസ്റ്റം ത്രൂപുട്ട് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഒരു ചിത്രത്തിലൂടെ ഞാൻ പറയാം ടെക്നിക്കുകൾ മെച്ചപ്പെടുത്തുക എന്നത് ഒരു വെല്ലുവിളിയാണ് ഇതിന് വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ് അതിനാൽ നമുക്ക് ഓരോന്നായി കാണാം പ്രോട്ടോക്കോൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന രീതി ഞാൻ ഒരു ചിത്രം വരച്ച് വിശദീകരിക്കാം ഇവിടെ റീഡറിന്റെ കാഴ്ചപ്പാടും ടാഗുകളുടെ കാഴ്ചപ്പാടും ഉണ്ട് ഇപ്പോൾ അടിസ്ഥാനപരമായി റീഡർ എല്ലാ ടാഗുകളിലേക്കും ഒരു ചോദ്യ കമാൻഡ് അയയ്ക്കുന്നു ചോദ്യ കമാൻഡിൽ മില്ലർ എൻകോഡിംഗ് പാരാമീറ്ററിനെക്കുറിച്ച് പ്രധാനമായും സംസാരിക്കുന്ന നിരവധി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അത് മില്ലർ എൻകോഡിംഗ് 2 4 8 ചെയ്യണോ അതോ എഫ്എം 0 എൻകോഡിംഗ് ചെയ്യണോ ഒരു ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിംഗ് ചെയ്യുമ്പോൾ ഏത് ഫ്രീക്വൻസിയിലാണ് ചെയ്യേണ്ടത് എന്നതും ഈ ചോദ്യ കമാൻഡിൽ അടങ്ങിയിരിക്കുന്നു അതിനുള്ള മറുപടിയായി ടാഗുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഇതിനുപുറമെ K യും അയച്ചിട്ടുണ്ട് K അടിസ്ഥാനപരമായി ഫ്രെയിം വലുപ്പമാണ് ടാഗിനായി ലഭ്യമായ ധാരാളം സ്ലോട്ടുകളെക്കുറിച്ച് ഇതിൽ നിന്ന് അറിയാം 96 ബിറ്റ് ഐഡി അയയ്ക്കുന്നതിന് ലഭ്യമായ സമയ സ്ലോട്ടുകളുടെ എണ്ണം ഇതിൽ നിന്ന് അറിയാം ഇപ്പോൾ 96 ബിറ്റ് ഐഡി യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പുറത്തുപോകുന്നതിന് മുമ്പായി തന്നെ 16 ബിറ്റ് റാൻഡം നമ്പർ അയയ്ക്കേണ്ടതുണ്ട് ഇതിനെ ഞങ്ങൾ RN16 എന്ന് വിളിക്കുന്നു RN16 ക്വറി കഴിഞ്ഞയുടനെ കൊളിഷനുകൾ ഇല്ലെങ്കിൽ ഈ ടാഗുകളിൽ നിന്ന് റീഡർ ഈ RN16 റാൻഡം നമ്പറുകളെല്ലാം സ്വീകരിക്കുന്നു മാത്രമല്ല ഇത് ഈ ദിശയിലുള്ള ഒരു അക്നോളട്ജ്മെന്റിലൂടെ ഡൌൺലിങ്ക് ദിശയിൽ പ്രതികരിക്കുകയും ചെയ്യും അക്നോളട്ജ്മെന്റിന് മറുപടിയായി ടാഗുകൾ അവരുടെ 96 ബിറ്റ് ഐഡി അയയ്ക്കും കാരണം അവർക്ക് വിജയകരമായ ഒരു അക്നോളട്ജ്മെന്റ് ലഭിച്ചുവെന്ന് അവർക്കറിയാം അതായത് അവ കൊളയ്ഡ് ചെയ്യില്ല പിന്നീട് അത് റീഡറിലേക്ക് തിരികെ പോകുകയും റീഡർ Q rep എന്ന് വിളിക്കുന്ന ഒരു പ്രതികരണം തിരികെ അയയ്ക്കുകയും ചെയ്യുന്നു അത് പ്രധാനമായ ഒരു പ്രതികരണമാണ് ഒരർത്ഥത്തിൽ ഇത് RFID റീഡറും ടാഗുകളും തമ്മിൽ പ്രവർത്തിക്കുന്ന RFID പ്രോട്ടോക്കോൾ ആണ് എല്ലാ ടാഗുകളും റീഡ് ചെയ്തു കഴിഞ്ഞാൽ റീഡർ പവർ ഡൌൺ ചെയ്യും ഇത് എഴുതുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ എല്ലാ ടാഗുകളും ശരിയായി റീഡ് ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ പ്രയാസമാണ് ഞങ്ങൾ ഒരു ഫ്രെയിമിനെ ഒരു ഇൻവെന്ററി റൌണ്ട് എന്നും പവർ ഡൌൺ പീരീഡുകൾക്കിടയിലുള്ള ഇൻവെന്ററി റൌണ്ടുകളെ ഒരു ഇൻവെന്ററി സൈക്കിൾ എന്നും വിളിക്കുന്നു ഞാൻ ഒരു ചിത്രം കാണിച്ചുതരാം ഞാൻ ഇതുപോലുള്ള സർക്കിളുകൾ വരയ്ക്കും ഞാൻ ഇവിടെ കാണിച്ച ഈ ചെറിയ സർക്കിളിനെ ഓരോന്നും ഇൻവെന്ററി റൌണ്ട് എന്ന് വിളിക്കുന്നു അടിസ്ഥാനപരമായി ഒരു സർക്കിൾ നിർമ്മിക്കുന്നത് ഇൻവെൻററി റൌണ്ടുകളുടെ ഒരു കൂട്ടം ആണ് അതിനാൽ ഈ ആരോയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ തിരികെ ഒരു പവർ ഡൌൺ ഉണ്ട് 1 2 3 4 5 6 7 8 9 ഈ 9 ചെറിയ സർക്കിളുകളേയും ഞങ്ങൾ ഇപ്പോൾ ഇൻവെന്ററി റൌണ്ടുകൾ എന്ന് വിളിക്കും ടാഗിന് പവർ ഉണ്ട് ടാഗ് സക്സസ്ഫുൾ അല്ലെങ്കിൽ അത് RN 16 അയക്കുന്നു ഇതിന് അക്നോളജ്മെന്റെ കിട്ടുകയാണെങ്കിൽ RN16 അയച്ചത് സക്സസ്ഫുൾ അല്ല ഇനി അക്നോളജ്മെന്റെ കിട്ടുന്നില്ല എങ്കിൽ അത് കൊളീഷൻ കാരണമാണ് അങ്ങനെ ആണെങ്കിൽ അതിനു ഒന്നുകൂടെ പരീക്ഷിക്കാവുന്നതാണ് അതിനാൽ K ഈ ഇൻവെന്ററി സൈക്കിൾ മുഴുവൻ വ്യാപിക്കുന്നു അതിനർത്ഥം പൂർണ്ണമായ ഇൻവെന്ററി സൈക്കിൾ ഉൾക്കൊള്ളുന്ന സ്ലോട്ടുകളുടെ എണ്ണം കൂടുതലാണ് 1 2 3 4 5 6 7 8 9 നിങ്ങൾക്ക് ഫുൾ ഓഫ് ചെയ്യാം അതിനുള്ളിലെ ഓരോ റൌണ്ടിലും ഓരോ വ്യക്തിഗത സൈക്കിൾ പ്രധാനമാണ് അതിനാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ പവർ ഡൌൺ ഉണ്ട് ഇത് വീണ്ടും പവർ ചെയ്യുന്നതിന് ഇവിടെ ഒരു പവർ ഉണ്ടാകും എല്ലാ ഇടത്തും പവർ ഉണ്ട് അതിനാൽ ഞാൻ ടാഗുചെയ്താൽ അത് ഒരു ഇൻവെന്ററി റൌണ്ടിൽ ഇല്ലായെങ്കിൽ അതിനുവേണ്ടി വീണ്ടും ശ്രമിക്കാം ഓരോ സർക്കിളുകളുടെയും അളവ് വളരെ ചെറുതാക്കാം നിങ്ങൾക്ക് വളരെ ചെറിയ സർക്കിളുകൾ ഉണ്ടാകാം കൂടാതെ നിങ്ങൾക്ക് വളരെ വലിയ സർക്കിളുകളും ഉണ്ടാകാം ക്രമീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നിങ്ങൾക്ക് ഒരു വലിയ K ഉണ്ടെങ്കിൽ അത് ടാഗുകൾക്ക് നല്ലതാണ് ബേസ് സ്റ്റേഷനുമായി വിജയകരമായി ആശയവിനിമയം നടത്താനുള്ള അവസരം അവർ കണ്ടെത്തുന്നത് തുടരും പക്ഷേ ലേറ്റൻസി ഉണ്ടാകുന്നു വലിയ K ക്ക് ലേറ്റൻസി വർദ്ധിക്കുന്നു അതിനാൽ K യുടെ വലിയ മൂല്യം തിരഞ്ഞെടുക്കുകയും എപ്പോഴും നല്ല കവറേജ് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കുകയും വേണം K യുടെ ശരിയായ മൂല്യം എന്താണെന്ന് കണ്ടെത്തുന്നത് പോലും എളുപ്പമല്ല പല വർക്കുകളിലും K തിരഞ്ഞെടുക്കുന്ന പലരീതികൾ പരാമർശിച്ചിട്ടുണ്ട് അത് തിരഞ്ഞെടുക്കുമ്പോൾ കൊളിഷനുകൾ 0 അടുക്കണം ഇൻവെന്ററി സൈക്കിളിന്റെ അവസാനത്തെ എല്ലാ ടാഗുകളും 96 ബിറ്റ് ഐഡി വഴി വിജയകരമായി രജിസ്റ്റർ ചെയ്യുന്നു എന്നാൽ ഈ മേഖലയിലെ യഥാർത്ഥ വെല്ലുവിളി RFID റീഡറിലുള്ള കൂട്ടിയിടികളിൽ നിന്ന് വീണ്ടെടുക്കുക എന്നതാണ് ത്രൂപുട്ട് മെച്ചപ്പെടുത്തുന്നതിന് ഒരു വെല്ലുവിളിയുണ്ടെന്നാണ് ഇതിനർത്ഥം ഈ വെല്ലുവിളിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു നല്ല പേപ്പറിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം പേപ്പറിൽ ഞാൻ RFID EPC Gen 2 പ്രോട്ടോക്കോളിനായുള്ള മൾട്ടി പാക്കറ്റ് റിസപ്ഷൻ എന്നതിനെ കുറിച്ച് നോക്കാം ഡാനിലോ ഡി ടൊണ്ണോ ആണ് ഓതർ ഇത് 2012 ൽ IEEE പ്രസിദ്ധീകരിച്ചു ഈ പേപ്പർ യഥാർത്ഥത്തിൽ ഒരാൾ കൊളിഷനിൽ നിന്ന് എങ്ങനെ കരകയറും ത്രൂപുട്ട് എങ്ങനെ മെച്ചപ്പെടുത്തും എന്നതിനെക്കുറിച്ച് പറയുന്നു അടിസ്ഥാനപരമായി ഇത് ഒരു നല്ല വെല്ലുവിളിയാണ് ത്രൂപുട്ട് മെച്ചപ്പെടുത്തൽ RFID സിസ്റ്റങ്ങൾക്ക് ഒരു പ്രധാന ആവശ്യകതയായി മാറുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ചത് അതാണ് കൊളൈയ്ഡ് ചെയ്ത 2 ടാഗുകളിലൊന്ന് വീണ്ടെടുക്കാൻ RFID റീഡറിന് കഴിയുമെങ്കിൽ അത് ഇതിനകം തന്നെ ഒരു മെച്ചപ്പെടുത്തലാണ് അതിനാൽ റീഡർ ഈ കൊളയ്ഡ് ചെയ്യുന്ന 2 നോഡുകളിൽ നിന്ന് എങ്ങനെ വീണ്ടെടുക്കന്നു എന്നത് നോക്കാം അവർ ചെയ്യുന്നത് രസകരമാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ശ്രമിക്കാം വാണിജ്യ സോഫ്റ്റ്വെയർ വാങ്ങുന്നതിനുപുറമെ നിങ്ങൾക്ക് RFID റീഡർ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാൻ കഴിയും നമുക്ക് ഓപ്പൺ സോഴ്സിൽ നിന്ന് RFID റീഡർ ഉപയോഗിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയും റേഡിയോ പ്ലാറ്റ്ഫോമിൽ യുഎസ്ആർപി എന്ന് വിളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾക്ക് ഇത് യുഎസ്ആർപി പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും ടാഗുകൾ റീഡ് ചെയ്യുന്നതിനാൽ സ്ലോട്ടുകൾ ക്രമരഹിതമായി തിരഞ്ഞെടുക്കുന്നു റാൻഡം നമ്പർ ജനറേറ്റർ നല്ലതാണെങ്കിൽ കൊളിഷനുകൾ ശരിയായ രീതിയിൽ കുറയ്ക്കാൻ കഴിയുന്നു തിരഞ്ഞെടുത്ത സ്ലോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ വളരെ സ്റ്റാൻഡേർഡ് അൽഗോരിതം ഉണ്ട് പ്രത്യേകിച്ചും ലീനിയർ കോംഗ്രൻഷ്യൽ ജനറേറ്റർ എൽസിജി എന്ന ഒരു ജനറേറ്റർ ഉണ്ട് എൽസിജി വളരെ സാധാരണമായ സ്യൂടോ റാൻഡം നമ്പർ ജനറേറ്ററാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഒരു പ്രധാന കാര്യമാണ് അടിസ്ഥാനപരമായി പ്രോട്ടോക്കോൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ RFID മേഖലയിലെ പ്രശ്നമായ രണ്ടാമത്തെ വെല്ലുവിളി ലോക്കലൈസേഷനുമായ ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ ഡെമോ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ 2 പാരാമീറ്ററുകൾ ലഭ്യമാണെന്ന് നിങ്ങൾ കാണും ഒരു ടാഗിന്റെ ലോക്കലൈസേഷൻ നടത്താൻ ഈ 2 പാരാമീറ്ററുകൾ ഫലപ്രദമായി ഉപയോഗിക്കാം അവ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള നിരവധി പ്രബന്ധങ്ങൾ ഉണ്ട് ആർഎസ്എസ്ഐയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫെയ്സ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം വളരെ മികച്ചതാണ് എന്നിരുന്നാലും വളരെ ലളിതമായ ആപ്ലിക്കേഷനുകൾക്കും ആർഎസ്എസ്ഐ ഇതിനകം തന്നെ മതിയായതായി തോന്നുന്നു വളരെ പരുക്കൻ ലൊക്കേഷനുകൾ RFID ൽ പ്രശ്നമായിരിക്കുന്നത് എന്തുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ RFID നായുള്ള ഉപയോഗ കേസുകൾ എടുക്കുകയാണെങ്കിൽ അത് ലോജിസ്റ്റിക്സിനായുള്ള വെയർ ഹൌസുകളിലും മറ്റും ഉപയോഗിക്കുന്നു ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം എടുക്കുക നിങ്ങൾ ഒരു വെയർഹൌസിൽ നിരവധി മരുന്നുകൾ വലിച്ചെറിയുന്നു അവിടെയുള്ള എല്ലാ മരുന്നുകളും തിരിച്ചറിയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാൽ ഒരു പ്രത്യേക മരുന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ഇപ്പോൾ ടാഗ് ഐഡി റീഡ് ചെയ്തതു കൊണ്ട് ആ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകില്ല ടാഗ് നിലവിലുണ്ടെന്നും അതിനാൽ വെയർഹൌസിൽ ഡ്രഗ് നിലവിലുണ്ടെന്നും അത് ഒരിക്കലും നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നില്ല കാരണം ലളിതമായ മാർഗ്ഗമില്ല ലോക്കലൈസേഷനു വേണ്ടി ഞങ്ങൾക്ക് എങ്ങനെ RFID ഉപയോഗിക്കാം RFID നെക്കുറിച്ച് ഇതിനകം ചില നല്ല പരാമീറ്ററുകൾ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് അത് പവർ ആണ് വീണ്ടും റീക്യാപ്പ് ചെയ്യുന്നതിന് RFID സെൻസറുകളുമായി സംയോജിപ്പിക്കാൻ കഴിയും ലോക്കലൈസേഷൻ ആവശ്യങ്ങൾക്കായി RFID ഉപയോഗിക്കാം RFID വേഗത്തിൽ റീഡ് ചെയ്യാൻ കഴിയും ഒപ്പം കൊളിഷനുകൾ കുറയ്ക്കുകയും ത്രൂപുട്ട് മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് വെല്ലുവിളി അതിനാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ടാഗുകൾ വേഗത്തിൽ റീഡ് ചെയ്യാൻ കഴിയും RFID യുടെ ഈ ലോക്കലൈസേഷൻ വെല്ലുവിളി നമുക്ക് മനസിലാക്കാം പക്ഷേ ഞങ്ങൾ സ്വയം RSSI അടിസ്ഥാന രീതിയിലേക്ക് പരിമിതപ്പെടുത്തും ലോക്കലൈസേഷന്റെ അൽഗോരിതത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ ലോക്കലൈസേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ആശയം നൽകുന്നതിന് വേണ്ടിയാണിത് RSSI ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പൊതുവേ ഈ RSSI മിക്കവാറും എല്ലാത്തരം റേഡിയോകളിലും ലഭ്യമാണ് BLE ബ്ലൂടൂത്തിനെക്കാൾ കുറഞ്ഞ ഊർജ്ജം നിങ്ങൾക്ക് RSSI തരുന്നു Wi Fi ന് RSSI യെക്കുറിച്ച് ചില വിവരങ്ങൾ തരാൻ കഴിയും RFID വീണ്ടും RSSI സെല്ലുലാർ നെറ്റ്വർക്കുകൾ പ്രധാനമായും ടെലികോം നെറ്റ്വർക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നു അതിനാൽ സ്വീകരിക്കുന്ന സിഗ്നലുകളുടെ ശക്തിയെക്കുറിച്ച് ചിലത് ഉണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ഏകദേശം ലോക്കലൈസേഷൻ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാൻ ശ്രമിക്കുക മികച്ച രീതികളിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർഎസ്എസ്ഐയുടെ പരിമിതികൾ എന്തൊക്കെയാണെന്നും ഞാൻ നിങ്ങളോട് പറയാം ലോക്കലൈസേഷൻ ആവശ്യങ്ങൾക്കായി ഫെയ്സ് തിരഞ്ഞെടുക്കുന്നു വളരെ ലളിതമായ ഒരു ചിത്രം എടുത്ത് നമുക്ക് ആരംഭിക്കാം അടിസ്ഥാനപരമായി ഇതും ഈ ഡോട്ടും ഇവിടെയും ഇതുപോലെയാണ് 1 2 3 ഒരു തരം ട്രാൻസ്മിറ്ററുകളാണെന്ന് കരുതുക പക്ഷേ അടിസ്ഥാനപരമായി ട്രാൻസ്മിറ്ററുകൾ റിസീവറുകളും ആണ് എന്നാൽ പ്രധാനമായും അവയുടെ സ്ഥാനം അറിയാം അത് പ്രധാനമാണ് 3 ൻറേയും സ്ഥാനങ്ങൾ അറിയാം അതായത് അവ നിശ്ചിത സ്ഥാനങ്ങളിലാണ് ഈ നോഡ് നമ്പർ 4 ഒരു മൊബൈൽ നോഡാണെന്ന് നമുക്ക് പറയാം ഇതാണ് നോഡ് നമ്പർ 4 ഇപ്പോൾ 2 ഡൈമൻഷണൽ അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നോഡ് നമ്പർ 4 ന്റെ 2 ഡൈമൻഷണൽ സ്ഥാനം നിർണ്ണയിക്കുക എന്നതാണ് 2 ഡൈമൻഷണൽ ലൊക്കേഷൻ എന്നാൽ പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത് X y എന്നിവയെക്കുറിച്ചാണ് പക്ഷെ ഇത് X നൂറ് മുതൽ ത്രീഡി വരെയാകാം കൂടാതെ നമുക്ക് z ഉം എല്ലാം കിട്ടാം പക്ഷേ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട 4 ന്റെ 2 ഡി ലൊക്കേഷന്റെ ആവശ്യകത നോക്കുക ഇപ്പോൾ ലൊക്കേഷൻ കണക്കാക്കൽ അടിസ്ഥാനപരമായി 4 ൽ ആരംഭിക്കുന്നു ആദ്യ ഘട്ടം 4 എന്തുചെയ്യണം 4 ചെയ്യേണ്ടത് അത് മുൻകൂട്ടി നിർവചിച്ച പവർ ഉപയോഗിച്ച് ഒരു സിഗ്നൽ കൈമാറണം ട്രാൻസ്മിറ്റ് പവർ 1 2 ന് അറിയാം 1 2 3 ട്രാൻസ്മിറ്ററുകളാണ് മാത്രമല്ല റിസീവറുകളും 4 ൽ നിന്ന് അവർക്ക് സിഗ്നൽ സ്വീകരിക്കാനും കഴിയും അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഈ 1 2 3 എന്നിവയ്ക്ക് ഓമ്നിഡയറക്ഷണൽ ആന്റിന ഉണ്ടെന്ന് കരുതുക അവ ഓരോന്നും ശരിയാക്കുക വളരെ ലളിതമായി നോഡും 4 ന്റെ സ്ഥാനവും തമ്മിലുള്ള ദൂരം നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പത്തിൽ കണക്കാക്കാം എല്ലാം ലിങ്ക് ബജറ്റ് സമവാക്യത്തിൽ നിന്നാണ് വരുന്നത് അതിനാൽ Pr ലഭിച്ച പവർ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇത് മറ്റൊന്നുമല്ല റിസീവ് ചെയ്ത പവർ ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത പവർ വീണ്ടും നോഡ് 4 ന്റെ ഡിബിഎമ്മിൽ അതായത് മുൻനിശ്ചയിച്ച ശക്തിയോടെ അത് പ്രക്ഷേപണം ചെയ്യും ലഭിച്ച സിഗ്നൽ നിശ്ചിത നോഡ് സ്ഥാനത്തുള്ള ആർഎസ്എസ് മെഗാഹെർട്സിലെ പ്രക്ഷേപണം ചെയ്ത സിഗ്നൽ ഫ്രീക്വൻസി ആണ് f അടിസ്ഥാനപരമായി ഇത് മെഗാഹെർട്സിലാണ് N പാത്ത് ലോസ് എക്സ്പോണന്റ് എല്ലാ സാങ്കേതികവിദ്യയിലും ഓരോ സിസ്റ്റത്തിനും ഈ നമ്പറുകൾ ഉണ്ടാകും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകില്ല അടിസ്ഥാനപരമായി ഡിസ്ടെൻസ് സ്ക്വയർ ലോ നിയമത്തെക്കുറിച്ച് ഇത് നിങ്ങളോട് പറയുന്നു ഇത് പാത്ത് ലോസ് എക്സ്പോണന്റാണ് r മീറ്ററിലെ ദൂരം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമായി ഇനിപ്പറയുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും നോഡ് 1 എടുക്കുക നിങ്ങൾക്ക് r1 എന്ന ദൂരം 4 ൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും r1 നോഡ് 1 നും 4 നും ഇടയിലുള്ള ദൂരം ആണ് ഈ RSS ഉപയോഗിച്ചു കണ്ടുപിടിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു RSS ലഭിക്കും നോഡ് 1 നടത്തിയ ഒരൊറ്റ അളവെടുപ്പിൽ നിന്ന് നോഡ് 4 അതിന്റെ പരിധിക്കുള്ളിൽ സ്ഥിതിചെയ്യുന്നു എന്നതാണ് ഏക നിഗമനം നിങ്ങൾ സമ്മതിക്കുമോ ഇത് അതിന്റെ ചുറ്റളവിൽ സ്ഥിതിചെയ്യുന്നു നോഡ് 1 കേന്ദ്രീകരിച്ച് ദൂരമുള്ള ഒരു സർക്കിളിന്റെ പരിധിക്കുള്ളിലാണെന്നതാണ് ഏക നിഗമനം ഞാൻ അത് ശരിയായി കാണിച്ചിട്ടില്ല അത് അവിടെയുള്ള സെൻറ്ററിൽ കാണിക്കണം ഈ സെൻറ്റർ പോലെ എന്തോ ഒന്ന് ലളിതമായ യൂക്ലിഡിയൻ എക്സ്പ്രഷനുകൾ ഉപയോഗിക്കാമെന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് യൂക്ലിഡിയൻ ദൂരo നമുക്ക് വളരെ ലളിതമായി എഴുതാം ഇത് സ്ഥിതിചെയ്യുന്നത് ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഉള്ളിലാണ് അതാണ് ആശയം 2 ഡൈമെൻഷൻ മാത്രമാണ് ഞങ്ങൾ എടുത്തത് അതുപോലെ നിങ്ങൾക്ക് ഇത് ഇടത് വശത്ത് എടുത്ത് ഇത് 0 ന് തുല്യമാക്കാം നിങ്ങൾക്ക് മറ്റ് സമവാക്യങ്ങളും നേടാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് നേടാം കൂടാതെ നിങ്ങൾക്ക് r1 r2 r3 ലഭിക്കും ന്റെ നല്ല മാട്രിക്സ് പ്രാതിനിധ്യത്തിൽ നിങ്ങൾക്ക് അവയെ മാറ്റി എഴുതാം അത് വളരെ ലളിതമാണ് അതിനാൽ ഞങ്ങൾ പറയുന്ന അനുയോജ്യമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നേടാൻ കഴിയണം അതിനാൽ അടിസ്ഥാനപരമായി ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജോഡി കോർഡിനേറ്റുകൾ ഉണ്ടാകും ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു X4 Y4 എന്ന ജോഡി കോർഡിനേറ്റുകൾ ഉണ്ട് അതാണ് നിങ്ങൾ അറിയേണ്ടത് ഈ സമവാക്യത്തെ അത് തൃപ്തിപ്പെടുത്തുന്നുവെങ്കിൽ X5 Y4 മൂല്യം നോഡ് 4 ന്റെ സ്ഥാനമാണ് അത്രയേയുള്ളൂ നോഡുകളുടെ ആപേക്ഷിക സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഈ രീതിയെ യഥാർത്ഥത്തിൽ ട്രിലേറ്ററേഷൻ എന്ന് വിളിക്കുന്നു X4 Y4 നിങ്ങൾക്ക് ഒരിക്കലും കൃത്യമായി ലഭിക്കില്ല എന്നതാണ് പ്രശ്നം അത് മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ ആർഎസ്എസ്ഐയുടെ ഏറ്റവും വലിയ പരിമിതി ഇതാണ് X4 Y4 എന്താണെന്ന് പരിഹരിക്കാൻ ആർഎസ്എസ്ഐ രീതികൾ ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇത് കൃത്യതയെ ബാധിക്കുന്നു സിസ്റ്റങ്ങൾ നൽകിയ RSSI അളക്കുന്നതിൽ ധാരാളം കൃത്യതയില്ലായ്മ കാരണം കണക്കാക്കിയ ദൂരത്തെ ബാധിച്ചേക്കാം അതിനാൽ അത് റീഡ് ചെയ്യുന്ന ആർഎസ്എസ്ഐ കൃത്യമായി ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല കാരണം ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന നിങ്ങളുടെ സമവാക്യം ബുദ്ധിമുട്ടാണ് അതിനാൽ സാധാരണയായി നിങ്ങൾ പറയുന്നതു പോലെ റേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു പിശക് ഉണ്ടകുന്നു ആത്യന്തികമായി നിങ്ങളെ നയിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് പ്രതിഫലനങ്ങൾ മൂലമാണ് മെറ്റാലിക് മീഡിയമുകളിൽ നിങ്ങൾ എവിടെയെങ്കിലും റീഡർ ടാഗ് പരിതസ്ഥിതി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നിങ്ങൾക്ക് സ്ഥിരമായ ഒരു RSSI റീഡിഗ് നൽകില്ല നിങ്ങൾക്ക് ഒരിക്കലും സ്ഥിരമായ RSSI മൂല്യം ലഭിക്കില്ല നമുക്ക് സ്ഥിരമായ മൂല്യം ലഭിച്ചില്ലെങ്കിൽ ഈ സമവാക്യം തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗ്ഗവുമില്ല കൂടാതെ ഒരു പിശക് സംഭവിക്കുകയും ചെയ്യും അതിനാൽ ആർഎസ്എസ്ഐ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ് ആർഎസ്എസ്ഐ കഠിനമാകുന്നതിന്റെ ഒരു ഭാഗമാണ് പക്ഷേ അതിനുള്ള വഴികളുണ്ട് അവ തുല്യമാണെന്ന് പറയരുത് ഈ അവസ്ഥയെ പൂജ്യത്തിന് തുല്യമാക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയും ഇത് ചില പിശകുകൾ തൃപ്തിപ്പെടുത്തുന്നു ഓരോ നോഡുകളിൽ നിന്നുമുള്ള അളവിൽ നിങ്ങൾ ചെയ്യുന്നത് കുറച്ച് ചതുരശ്രയടി ശ്രമിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി സ്ക്വയർ എറർ ആണ് ഈ എറർ സ്ക്വയറിനെ ചെറുതാക്കുന്നു ലൊക്കേഷൻ കണക്കാക്കലാണ് ലക്ഷ്യമെന്ന് നിങ്ങൾ പറയുന്നു ഇപ്പോൾ നിങ്ങൾ ലക്ഷ്യം പരിഷ്ക്കരിച്ചു ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുക ഈ ആർഎസ്എസ്ഐയിൽ നിരവധി കാരണങ്ങളാൽ അളക്കുന്നതിൽ കൃത്യതയുണ്ട് ഞാൻ ഇപ്പോൾ ലക്ഷ്യം പരിഷ്ക്കരിക്കും പുതിയ ലക്ഷ്യം ഇപ്പോൾ X4 Y4 കണ്ടെത്തലാണ് എറർ കുറയ്ക്കുന്ന X4 Y4 ഞങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്ക് ചെയ്യാനാകുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇത് ഒരിക്കലും 0 ആക്കാനാവില്ല ആർഎസ്എസ്ഐ നല്ല ആശയമല്ലാത്തതിന്റെ മറ്റ് ചില കാരണങ്ങളിലേക്ക് കടക്കാം നിങ്ങൾക്ക് വിലകുറഞ്ഞ ഹാർഡ്വെയറും ഉള്ളതിനാലാണിത് അവ വിലകുറഞ്ഞ ഹാർഡ്വെയറുമായതിനാൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ പിശകുകൾ ശരിയാക്കാം ഈ ഹാർഡ്വെയർ പിശകുകൾക്ക് വ്യത്യസ്തമായി റീഡ് ചെയുന്നു RSSI വ്യത്യസ്ത ടാഗുകളിലാണ് നിങ്ങൾക്ക് വ്യത്യസ്ത RSSI ഉണ്ടായിരിക്കാം മറ്റൊരു കാര്യം ആന്റിനയാണ് നിങ്ങൾ എന്ത് കരുതി റേഡിയേഷൻ പാറ്റേൺ നോക്കുക ആന്റിനയുടെ ധ്രുവീകരണം എന്താണ് ആന്റിന റേഡിയേഷൻ പാറ്റേൺ വൃത്താകൃതിയിലാണെങ്കിൽ പരമാവധി ടാഗ് റീഡുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു വൃത്താകൃതിയിലുള്ള ധ്രുവീകരണം എന്നതിനർത്ഥം നിങ്ങൾക്ക് പരമാവധി ടാഗ് റീഡുകൾ ലഭിക്കും ഇവിടെ ആർഎസ്എസ്ഐയുമായി ബന്ധപ്പെട്ട് ഇത് വെല്ലുവിളിയല്ല നിങ്ങൾക്ക് ധാരാളം ടാഗ് റീഡുകൾ ലഭിക്കുമെന്നതാണ് വെല്ലുവിളി എന്നാൽ ഓരോ മൂല്യവും നിങ്ങൾ ആർഎസ്എസ്ഐ റീഡ് ചെയ്യുന്ന ഓരോ സമയത്തും ചാഞ്ചാട്ടം കാണിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളി അതിനാൽ ഇത് ഒരു പ്രശ്നമാകാനുള്ള വിവിധ കാരണങ്ങൾ ആണ് റേഡിയേഷൻ പാറ്റേൺ ഒരിക്കലും ഓമ്നി ദിശാസൂചനയായി കണക്കാക്കാനാവില്ല നിങ്ങൾക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ഒരു അനുമാനവും നടത്താൻ കഴിയില്ല നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഒരുപക്ഷേ അതിന് ഒരു ദിശയിൽ അല്പം നീളുന്ന ഒരു ലോബ് ഉണ്ടായിരിക്കാം എന്നാൽ മറ്റൊരു ദിശയിൽ ലോബ് വളരെയധികം വ്യാപിക്കുന്നില്ലായിരിക്കാം ഏത് സാഹചര്യത്തിലാണ് ഇതിന് RSSI കൃത്യമായി റീഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഒരു കാര്യമാണ് ഓമ്നി ദിശാസൂചനയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു അതിനാൽ റേഡിയേഷൻ പാറ്റേൺ സിഗ്നൽ ശക്തിയെ ബാധിക്കുന്നു ആർഎസ്എസ്ഐയെ ഇത് ബാധിക്കും അതിനാൽ എന്താണ് പോംവഴി അതിനുള്ള മാർഗ്ഗം കഴിയുന്നത്ര ആർഎസ്എസ്ഐ റീഡുകൾ നേടുക എന്നതാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ പരീക്ഷണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പിശക് കുറയ്ക്കുന്നു അത് ദീർഘനേരം റീഡ് ചെയ്തതിനുശേഷം കുറച്ച് പാറ്റേൺ നിരീക്ഷിച്ചുകൊണ്ട് പിശക് കുറയ്ക്കുന്നു അതിനാൽ അതൊരു മാർഗമായിരിക്കാം ലോക്കലൈസേഷനായി RSSI ഉപയോഗിക്കുക മറ്റ് സൈദ്ധാന്തിക സമീപനങ്ങളുണ്ട് ഇൻഡോർ പരിസ്ഥിതിയെ കണക്കാക്കുന്ന റേ ട്രെയ്സിംഗ് റേ ട്രെയ്സിംഗ് രീതികൾ ചുറ്റുമുള്ള വസ്തുക്കളുടെ ഫ്ലോർ പ്ലാൻ റഫ്ലക്ഷൻ റിഫ്ലക്ഷൻ കോഎഫിഷന്റ് എന്നിവ വളരെ പ്രചാരത്തിലുണ്ട് നിങ്ങൾ കഴിയുന്നത്ര മറ്റ് വിവരങ്ങൾ ഉപയോഗിക്കുന്നു ആർഎസ്എസ്ഐ മൂല്യം പരിഹരിക്കുന്നതിനുള്ള ഏതെങ്കിലും വിധത്തിൽ എത്തിച്ചേരാൻ അത് ഉപയോഗിക്കുക അതിനാൽ ആർഎസ്എസ്ഐയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും എന്നതാണ് ചുരുക്കo അവസാനമായി ടാഗ് ലോക്കലൈസേഷന്റെആവശ്യകതയ്ക്കായി മിക്ക ആർഎഫ്ഐഡി റീഡറിൽ നിന്നും ലഭ്യമായ നല്ല അടയാളം ആയിട്ടാണ് ഫെയിസ് കാണപ്പെടുന്നതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ടാഗിന്റെ ഫെയിസ് കാണപ്പെടുന്നതെന്നും എന്നതുകൊണ്ട് ഞങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിന്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചുതരാം അതോടൊപ്പം അവയിൽ നിന്ന് ഈ ഫെയിസ് എങ്ങനെ വേർതിരിച്ചെടുക്കാം ഫെയിസ് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് റീഡറിൽ നിന്ന് ഇതിനകം തന്നെ ലഭ്യമാണ് ഓരോ തവണയും അത് ഒരു ടാഗ് വായിക്കുമ്പോഴും ലോക്കലൈസേഷനായി ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ആ ഫെയിസ് എ അടയാളം കാണുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ചിത്രത്തിൽ ചെയ്തത് ഞാൻ ഒരു റീഡറെ കാണിച്ചുതന്നിട്ടുണ്ട് ഇത് RFID റീഡർ ഇതാണ് ടാഗ് ഈ വശത്തെ ടാഗ് ഉപയോഗിക്കുന്നത് ഇതാണ് ഇത് കുറച്ച് ദൂരം കൊണ്ട് വേർതിരിച്ച റീഡറിന് ട്രാൻസ്മിറ്റർ ആന്റിന RFID റീഡർ ആന്റിനയിൽ നിന്ന് സഞ്ചരിക്കുന്ന ഒരു തരംഗം ദൂരങ്ങളിലേക്ക് പോകുന്നു ഈ ദൂരം r മറ്റൊരു ദിശയിലേക്ക് ചിതറിക്കിടക്കുന്നു അതിനാൽ തരംഗദൈർഘ്യം സഞ്ചരിച്ച മൊത്തം ദൂരമാണ് 2r ഇത് ശരിക്കും ബാക്ക് സ്കാറ്റർ ആണെന്ന് സൂചിപ്പിക്കുന്നതിന് ഞാൻ ഈ ഡോട്ട് ഇട്ട വരി കാണിക്കുന്നു ഇത് പ്രധാനമാണ് ടാഗ് ഡാറ്റ ചിതറിക്കുന്നു കാരണം അതിന് ഒരു ബാറ്ററിയും ഇല്ല ഞങ്ങൾ ബാറ്ററി എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി 3 തരം ടാഗുകൾ ഉണ്ട് ആക്ടീവ് ടാഗുകൾ എന്ന് വിളിക്കുന്ന ചിലത് ഉണ്ട് പാസീവ് ടാഗുകൾ ഉണ്ട് കൂടാതെ ബാറ്ററി അസിസ്റ്റ്റഡ് പാസീവ് ടാഗുകളും ഉണ്ട് ഇവയ്ക്ക് പ്രധാനമായും ബാറ്ററികളുണ്ട് അവ RFID ടാഗുകളുടെ മറ്റൊരു ക്ലാസാണ് ഈ ടാഗുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് മനസിലാക്കാൻ ദയവായി അവ ശ്രദ്ധാപൂർവ്വം നോക്കുക അതിനാൽ 3 വ്യത്യസ്ത തരം ടാഗുകൾ ഉണ്ടെന്ന് അതിനാൽ ഇവിടെ ഈ സാഹചര്യത്തിൽ ഞാൻ എടുത്തത് പൂർണ്ണമായും പാസീവായ ഒരു ടാഗാണ് മാത്രമല്ല ഇത് വിവരങ്ങളുടെ ഒരു ബാക്ക് സ്കാറ്റർ ചെയ്യുന്നു വളരെ നല്ലത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ലാംഡയാണ് c നൽകുന്നത് പ്രകാശത്തിന്റെ വേഗത f പ്രവർത്തനത്തിന്റെ ഫ്രീക്വൻസി ഇതാണ് ലാംഡ അതിനാൽ പ്രധാനമായും മൊത്തം ഫെയ്സ് തീറ്റ മറ്റൊന്നുമല്ല ഈ തീറ്റ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഫെയ്സിന്റെ കറക്കത്തെയാണ് ഒരു ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ ടാഗിന് തന്നെ ഒരു ഫെയ്സ് റൊട്ടേഷനായി തീറ്റ ടാഗ് ഉണ്ടാകും റീഡർ ഭാഗത്ത് ഫെയ്സ് അടിസ്ഥാനമാക്കിയുള്ള ലോക്കലൈസേഷനെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്ടെന്നാൽ ഫെയ്സ് 2 pi റേഡിയൻ ഉള്ള ഒരു ആനുകാലിക പാരാമീറ്ററാണ് കോഴ്സിന്റെ ഫെയ്സ് മൂല്യങ്ങൾ ദൂരങ്ങളിൽ ആവർത്തിക്കും കാരിയറിന്റെ ഇൻഫ്രാ തരംഗദൈർഘ്യത്തിന്റെ പകുതിയുടെ ഗുണിതങ്ങളാൽ വേർതിരിച്ച ums ലോക്കലൈസേഷൻനടത്തുന്നത് നിങ്ങൾക്ക് കൂടുതൽ സ്ഥിരത തരുന്നു ഫെയ്സ് സമീപനത്തിന്റെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ബാക്ക് പോസ് 3 ഡി ഇൻസാർ പോലുള്ള പേപ്പറിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ലോക്കലൈസേഷൻനടത്തുകയും RFID ടാഗുകളുടെ കൃത്യമായ ലോക്കലൈസേഷനിലേക്ക്വരികയും ചെയ്യാം നിങ്ങൾക്ക് സിംഗിൾ ആന്റിന ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം ആന്റിനയും ഉപയോഗിക്കാം നിങ്ങൾ ഒന്നിലധികം ആന്റിന കേസിലേക്ക് പോകുമ്പോൾ ഇത് 3 നോഡുകൾ കാണിക്കുന്ന ആർഎസ്എസ്ഐക്ക് സമാനമാണ് റിസീവർ നോഡുകളും ഒരെണ്ണവും നിങ്ങൾ നാലാമത്തെ നോഡിന്റെ സ്ഥാനം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഇത് വളരെ സമാനമാണ് നിങ്ങൾ അടിസ്ഥാനപരമായി ഒന്നിലധികം ആന്റിന ഉപയോഗിക്കുന്നു കൂടാതെ ഈ ഒന്നിലധികം ആന്റിനയിൽ നിന്ന് ഫെയ്സ് വിവരങ്ങൾ നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഇത് ട്രിലാറ്ററേഷനു തുല്യമാണ് ലളിതമായ ജ്യാമിതീയ വിദ്യകൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് കഴിയും അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഒരു ഫെയ്സ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ലോക്കലൈസേഷന് കഴിയും ഫെയ്സ് ഉപയോഗിക്കുന്ന ടാഗ് നിങ്ങൾക്ക് ഒരു ആന്റിന ഉപയോഗിക്കാനും ലോക്കലൈസേഷനു ശ്രമിക്കാമെന്നതുമാണ് മറ്റൊരു സമീപനം ഈ പ്രബന്ധങ്ങൾ അടിസ്ഥാനപരമായി അടുത്തിടെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളാണ് അവിടെ ഫെയ്സ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം ഉപയോഗിച്ച് RFID ടാഗുകളുടെ ലോക്കലൈസേഷനെക്കുറിച്ച് ചർച്ചചെയ്യുന്നു ഇത് വളരെ സമ്പന്നമായ ഒരു പ്രശ്നമേഖലയാണ് ആളുകൾ ഫെയ്സ് ഘട്ടമായി കാണുമ്പോൾ ആവേശകരമായ പരിഹാരങ്ങൾ ലഭ്യമാണ് വാസ്തവത്തിൽ വളരെ സ്ഥിരതയുള്ള ലോക്കലൈസേഷൻ സാധ്യമാണ് വാസ്തവത്തിൽ 12 5 സെന്റിമീറ്റർ കൃത്യതയിലേക്ക് ടാഗ് ലോക്കലൈസേഷന് ബാക്ക് പോസ് എന്നു പറയുന്നു ഇത് പല ആപ്ലിക്കേഷനുകൾക്കും നല്ലതാണ് അതിനാൽ RFID ടാഗുകളുമായുള്ള ലോക്കലൈസേഷൻ ഒരു വെല്ലുവിളി ആണ്